ഈ താളുകൾ യാത്രയുടെ അവസാനത്തിലെത്തി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഒരുമിച്ചുള്ള യാത്രയും അവസാനിക്കുകയാണ് 4 ആഴ്ചയിലേറെയായി നിങ്ങൾ ഈ പ്രഭാഷണങ്ങൾ ഓൺലൈനിൽ കേൾക്കുകയും ഡിസൈൻ ചിന്തയെക്കുറിച്ച് കൂടുതൽ കണ്ടെത്തുകയും ചെയ്യുന്നു ഒന്നാമതായി ഈ പ്രഭാഷണങ്ങൾ കേൾക്കാൻ നിങ്ങളുടെ സമയം ചെലവഴിച്ചതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കായി ഈ വീഡിയയോടൊപ്പം ഒരുപാട് തമാശകൾ ചേർക്കുന്നുണ്ട് ഇത് കേൾക്കുന്നതും ഞങ്ങളുടെ വർക്ക്ഷോപ്പുകൾ പ്രഭാഷണങ്ങൾ കാണുന്നതും കഥകൾ കേൾക്കുന്നതും നിങ്ങൾക്ക് സമാനമായ രസകരമായിരുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു യഥാർത്ഥ ജീവിതത്തിലും നിങ്ങൾ അവ പ്രയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഈ തത്ത്വങ്ങൾ നടപ്പിലാക്കുമ്പോൾ മികച്ചതാണ് നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല അത് നീട്ടാൻ നമുക്ക് ശ്രമിക്കാം അതെ നിങ്ങൾ എന്നെ ശരിയായി കേട്ടിട്ടുണ്ട് നമ്മൾക്ക് മുഖാമുഖം വരാം നമ്മൾക്ക് ഒരുമിച്ച് ഒരു വർക്ക് ഷോപ്പ് നടത്താം നിങ്ങൾ എന്തിനാണ് ഈ വർക്ക്ഷോപ്പിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നതെന്നും അതിൽ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നതെന്താണെന്നും നിങ്ങളുടെ പ്രചോദനത്തോടെ ഒരു എൻട്രി അയയ്ക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഏകദേശം 300 മുതൽ 350 വരെ വാക്കുകളിൽ എഴുതുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചിത്രങ്ങൾ ചേർക്കാം അല്ലെങ്കിൽ ഇതിൽ രണ്ടും ചെയ്യാം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കും നമ്മൾക്ക് ഒരുമിച്ച് ഇരിക്കാനും യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രോജക്റ്റിൽ പ്രവർത്തിക്കാനും മികച്ചതാക്കാനും കഴിയും ഡിസൈൻ ചിന്തകൾ പ്രയോഗിച്ചുകൊണ്ട് പ്രക്രിയയിൽ ആരെയെങ്കിലും സഹായിക്കുക അതിനാൽ നിങ്ങളുടെ എൻട്രികളിലൂടെയും വ്യക്തിപരമായും നിങ്ങളെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വളരെ ആശംസകൾ നേരുന്നു നന്ദി ബൈ